സെൽ കൾചർ ടെക്നോളജിയുടെ ക്ലാസുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ആദ്യത്തെ ആഴ്ചയിലെ അഞ്ചാമത്തെ ക്ലാസ്സാണ് അതിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം W1L 5 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ സൈക്കിളുകളെ പറ്റിയാണ് പഠിച്ചത് അതിൻറെ അവസാനത്തിൽ രണ്ട് തരം സെല്ലുകളെ പറ്റി പറഞ്ഞിരുന്നു ഒന്നു വിഭജിക്കുന്ന സെല്ലുകളും മറ്റൊന്ന് വിഭജിക്കാനാകാത്ത സെല്ലുകളും വിഭജിക്കാനാകാത്ത സെല്ലുകൾക്ക് ഉദാഹരണമായി ന്യൂറോണൽ സെല്ലുകളും കാർഡിയാക് സെല്ലുകളും പറഞ്ഞിരുന്നു അതുകൂടാതെ വിഭജിക്കുന്ന സെല്ലുകൾക്ക് ഉദാഹരണമായി സ്കിൻ അഥവാ ചർമത്തിന്റെ സെല്ലുകളും നമ്മൾ പറഞ്ഞു ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ട് അതായത് ഒരു വശത്ത് വിഭജിക്കുന്ന സെല്ലുകളെ പറ്റിയും മറുവശത്ത് വിഭജിക്കാനാകാത്ത സെല്ലുകളെ പറ്റിയും പറയാം സ്കിന്നിനെ പറ്റി പറയുമ്പോൾ അതിന് ഇന്ന് 2 ലയറുകൾ ഉണ്ട് ആദ്യത്തേത് എപ്പിഡെർമൽ ലയറും രണ്ടാമത്തേത് ഡെർമൽ ലയറുമാണ് നിങ്ങളുടെ തന്നെ സ്കിന്നിന്നെ നോക്കിയാൽ അത് മനസിലാകും സ്കിൻ രോമങ്ങൾ ഇതുപോലെ പുറത്തുവരുന്നു ഇവിടെ സെൽ ബോഡികൾ ഇതുപോലെ ഇരിക്കുന്നു അതിനടിയിൽ ഇതുപോലുള്ള ആദ്യത്തെ ലെയർ കാണും അതുപോലെ രണ്ടാമത്തെ ലയറും കാണും പക്ഷേ മൂന്നാമത്തെ പാളി കട്ടിയുള്ളതല്ല ഇതുപോലുള്ള നാലാമത്തെയും അഞ്ചാമത്തെയും ലയറും കാണാം അതിനാൽ ഇത് ഒരു എപ്പിഡെർമിസ് ആണെന്ന് നിങ്ങൾക്കറിയാം ഒരു എപിഡെർമിസിനുള്ളിൽ പല ലയേറുകളുണ്ട് ഇതാണ് സ്ട്രാറ്റം ജെർമിനാറ്റിവം ഇതാണ് സ്ട്രാറ്റം ഗ്രാനുലോസം ഇതിനിടയിൽ ആണ് സ്ട്രാറ്റം സ്പിനോസം സ്ട്രാറ്റം ലൂസിഡം സ്ട്രാറ്റം കോർണിയം സവിശേഷമായ കാര്യം എന്തെന്നാൽ ഈ തൊലിയുടെ ലയേറിൽ മോർട്ടൽ സെല്ലുകളും മെലാനോസൈറ്റുകളും കൂടാതെ ബേസൽ സെല്ലുകൾ കൂടിയുണ്ട് ഇവ സ്കിൻ സ്റ്റം സെല്ലുകളാണ് അവ വിഭജിച്ചാണ് സ്കിനിൻറെ പല ലെയറുകളും ഉണ്ടാകുന്നത് അത്തരത്തിൽ വിഭജിച്ചുണ്ടാകുന്ന സെല്ലുകൾ മുകളിലത്തെ ലെയറുകളിലേക്ക് കുടിയേറുന്നു ഇതിനായി 15 മുതൽ 20 ദിവസം വരെ എടുക്കുന്നു ഇത് മുകളിലത്തെ ലയറിൽ എത്തിയാൽ രണ്ടു മുതൽ മൂന്നാഴ്ച വരെ ജീവിക്കും അതിനുശേഷം അത് അവിടെനിന്ന് മാറ്റപ്പെടുകയും താഴത്തെ ലെയർ മുകളിലേക്ക് വരികയും ചെയ്യും ഏറ്റവും താഴത്തെ ലെയർ 5 ആണെന്ന് വിചാരിക്കുക അതിനുമുകളിൽ 4 3 2 1 എന്നിവ കാണാം അതായത് അഞ്ചിൽ നിന്ന് 4 പിന്നെ 3 അവിടെ നിന്ന് 2 1 0 എന്ന നിലയിലേക്കാണ് സെല്ലുകൾ പോകുന്നത് അത് അവസാനം പൂജ്യത്തിലേക്ക് എത്തപ്പെടുകയും അവസാനം സെല്ലുകൾ അവിടെ നിന്ന് കളയുകയും ചെയ്യുന്നു ഇതെല്ലാം നിരന്തര പ്രവർത്തികളാണ് ഇപ്പോൾ നമുക്ക് സെൽ സൈക്കിളുകളെ പറ്റി സംസാരിക്കാം ഈ വ്യക്തിഗത സെല്ലിന് മൈറ്റോസിസസിലൂടെ M ഘട്ടത്തിലൂടെ കടന്നുപോകാൻ കഴിയും മൈറ്റോസിസസിലൂടെ കടന്നുപോയതിനു ശേഷം ക്രോമസോം വേർപെടുത്തി 2 ഡോട്ടർ സെല്ലുകൾ രൂപപ്പെടുന്നന്നു ഇതാണ് ഇപ്പോൾ സെൽ ഇതാണ് ന്യൂക്ലിയസ് ഇത് ക്രോമാറ്റിക് കണ്ടൻസറുകളാണ് കൂടാതെ 2 ഡോട്ടർ സെല്ലുകളും രൂപം കൊള്ളുന്നു ഈ അടുത്ത മൈറ്റോസിസ് ഘട്ടത്തിൽ സെല്ലിന് ഒരു ചോയ്സ് ഉണ്ട് ഇതിനെ G1 ഫേസ് എന്ന് വിളിക്കുന്നു ഇവിടെ അതിന് വിഭജനം നിർത്തി വിഭജിക്കാത്ത സെല്ലായ് മാറാൻ കഴിയും അത് താൽക്കാലികമായി വിഭജനത്തിൽ നിന്ന് പുറത്തുപോകുന്നു തുടർന്ന് യഥാസമയം അത് വീണ്ടും ഡിവിഷൻ സൈക്കിളിലേക്കു വരുന്നു ഇവിടെ നിരവധി ചിപ്പ് പോയിൻറുകൾ ഉണ്ട് കാരണം ഇവിടെ സൈക്ലിനുകളും cdk കൈനെയ്സുകളും ഉണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതിനാൽ അത്തരം നിരവധി തന്മാത്രകൾ സൈക്ലിനുകളെയും cdk കൈനെയ്സുകളെയും കൈകാര്യം ചെയ്യുന്നു കൂടാതെ നിരവധി ചെക്ക് പോയിൻറുകൾ ഉണ്ട് അവ കൂടുതൽ മുന്നോട്ട് പോകുകയാണോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുന്നു കൂടുതൽ മുന്നോട്ട് പോകണമെന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ S ഘട്ടം എന്ന് വിളിക്കുന്ന ഒരു ഘട്ടം വരുന്നു ഇത് DNA ഉത്പാദനം സംഭവിക്കുന്ന ഘട്ടമാണ് അതിനുശേഷം ഒരു G2 ഘട്ടം ഇവിടെ വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് കൂടാതെ ഇവിടെ ധാരാളം ചെക്ക്പോയിന്റുകൾ ഉണ്ട് അതിനാൽ സെൽ ഈ സൈക്കിളിലൂടെ കടന്നുപോകുന്നു വളരെ രസകരമായ ഒരു ചോദ്യമെണ്ടെന്നാൽ ഈ സെൽ സൈക്കിൾ വഴി ഒരു വിഭജന സെൽ എത്ര തവണ കടന്നുപോകുമെന്നതാണ് അല്ലെങ്കിൽ ഈ സംഖ്യ അനന്തമാണോ ഉദാഹരണത്തിന് ഇതുപോലുള്ള ഒരു പ്രത്യേക സെൽ എത്ര സൈക്കിളുകൾ 1 2 3 4 ഇതുപോലെ എത്ര സൈക്കിളുകൾ ചെയ്യാൻ കഴിയും ഓരോ സൈക്കിളിലും ക്രോമോസോമിൽ ടെലോമെർ ഉണ്ട് അതിന്ടെ നീളമാണ് ദൈർഘ്യം തീരുമാനിക്കുന്നത് കാരണം കൂടുതൽ കൂടുതൽ ടെലോമിയർ ദൈർഘ്യം നഷ്ടപ്പെടുമ്പോൾ സെല്ലിന് യഥാർത്ഥ സവിശേഷതകൾ നഷ്ടപ്പെടുന്നു ഉദാഹരണമായി പറഞ്ഞാൽ ഈ G1 ഘട്ടത്തിൽ സെൽ വിഭജനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് സ്ഥിരമായി വിഭജിക്കപ്പെടാത്ത ഘട്ടത്തിലേക്ക് പോകും അത് എന്ത് അന്തിമ പ്രവർത്തനം കൈവരിക്കുമെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് അതിനാൽ 2 3 ഘട്ടങ്ങളുണ്ട് ഇപ്പോൾ അത് സെൽ സൈക്കിൾ ആയിരിക്കുമ്പോൾ 2 ഓപ്ഷനുകളുണ്ട് ചില പോയിന്റുകളിലോ മറ്റോ അത് കുറച്ച് ദിവസങ്ങളോ ഏതാനും മണിക്കൂറോ വിഭജിക്കുന്നുണ്ടാകാം ഒരു നിശ്ചിത ഘട്ടത്തിൽ വിഭജിക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ അത് കൂടുതൽ ഡിവിഷനിലേക്ക് പോകാൻ പോകുന്നില്ല അപ്പോഴത് ഒരു അന്തിമ ഐഡന്റിറ്റി എടുക്കേണ്ടതാണ് അന്തിമ ഐഡന്റിറ്റി എന്നാൽ ഇത് ഒരു പ്രത്യേക തരം ഹോർമോൺ ഉൽപാദിപ്പിക്കുന്ന സെല്ലായിരിക്കുമോ അല്ലെങ്കിൽ അത് ആൽവിയോളിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു സെല്ലായിരിക്കും അല്ലെങ്കിൽ അത് കാർഡിയോമയോസൈറ്റുകളായി ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു സെല്ലായിരിക്കും അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന ഒരു സെല്ലായിരിക്കും അല്ലെങ്കിൽ അത് മറ്റ് ചില ഹോർമോണുകൾ ഗോണഡോട്രോപിനുകൾ പോലുള്ളവ ഉണ്ടാക്കുന്നതായിരിക്കണം അതിനാൽ ഇത്തരത്തിൽ ഡിവിഷന് ശേഷമുള്ള ആ സെല്ലിന്റെ പ്രവർത്തിയെ പറ്റിയുള്ള അന്തിമ തീരുമാനത്തെ ഡിഫറെൻഷിയേ ഷൻ എന്ന് പറയുന്നു അതിനാൽ ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം സെല്ലാണ് ഇത് ഇപ്പോൾ വിഭജിക്കുന്നുഎന്നിട്ട് ഇത് ഒരു വലിയ കൂട്ടമായി മാറുന്നു ഇപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ചില സെല്ലുകൾ അവരുടെ വിധി തീരുമാനിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരിൽ ചിലർ ഡിഫറെൻഷിയേറ്റഡ് ആണ് അവർ ഇനി കൂടുതൽ വിഭജിക്കുകയില്ല ഇവയിൽ നിന്ന് ചിലത് ന്യൂറോണാകാൻ തീരുമാനിച്ചേക്കാം ഇനിയും ചിലർക്ക് വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ പേശി കോശങ്ങളോ മറ്റേതെങ്കിലും കോശങ്ങളോ ആകും ഈ വിധി നിർണ്ണയിക്കലിനെ ഡിഫറെൻഷിയേഷൻ എന്ന് പറയുന്നു സെല്ലിന് വിഭജിക്കാനുള്ള വ്യവസ്ഥകൾ ഡിഫറെൻഷിയേഷനിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ ഒരു ഡിഷിൽ സെല്ലുകൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് അത് വിഭജന ഘട്ടത്തിലാണോ അതോ ഡിഫറെൻഷിയേറ്റഡ് ആണോ എന്ന് നോക്കണം അതിനാൽ ഉദാഹരണത്തിന് എനിക്ക് ഇവിടെ ഒരു കൾച്ചർ ഡിഷുണ്ട് അവിടെ സെല്ലുകളുമുണ്ട് അവ വിഭജിച്ച് കൂടുതൽ വ്യാപിക്കുകയാണെന്ന് കരുതുക ഇപ്പോൾ ഈ വിഭജിക്കുന്ന സാഹചര്യങ്ങളിൽ വളർച്ചാ ഘടകങ്ങളും ചുറ്റുമുള്ള ചുറ്റുപാടുകളും ഈ സെല്ലുകൾക്ക് തികച്ചും വ്യത്യസ്തമായിരിക്കും അവയുടെ വിധി നിർണയിച്ചു കഴിഞ്ഞാൽഅതായതു അവർ ന്യൂറോൺ സെല്ലുകളോ അസ്ട്രോസൈറ്റുകളോ സ്ക്വൻ സെല്ലുകല്ലോ ആയി മാറാം ഈ രണ്ടവസ്ഥകളും വ്യത്യസ്തമാണ് ഇത് മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു നമ്മൾ ഒരു ജൈവവ്യവസ്ഥയെ പുറത്ത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എമുലേറ്റർ ഡൈനാമിക് സിസ്റ്റം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് മുൻ ക്ലാസ്സിൽ ഞാൻ ഈ വിഷയം പഠിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ വശങ്ങൾ നിങ്ങളോട് എടുത്തുകാണിക്കുന്നതിനോ മുൻപ് മൈക്രോ ഫ്ലൂയിഡിക് സിസ്റ്റങ്ങൾ അവതരിപ്പിപ്പിച്ചത് അവിടെ നിങ്ങൾക്ക് പരിസ്ഥിതി മാറ്റാനും വളരെ നാനോ മോളാർ പികോമോളാർ സാന്ദ്രതയിൽ ചില പ്രത്യേക വളർച്ചാ ഘടകങ്ങളെ നിശ്ചിത സമയത്തേക്ക് ഒഴുക്കാനും പറ്റും തുടർന്ന് രഹസ്യമായി മറ്റൊരു വളർച്ചാ ഘടകം അയയ്ക്കുകയും ചെയ്യും ഇതിനിടയില്ലെല്ലാം മറ്റൊരു വാക്ക് വരുന്നുണ്ട് ഇത് വിഭജനത്തിനും ഡിഫറെൻഷിയേഷനും ഇടയിൽ വിളിക്കപ്പെടുന്ന പദമാണ് ഡി ഡിഫറെൻഷിയേഷൻ എന്താണ് ഡി ഡിഫറെൻഷിയേഷൻ ഡി ഡിഫറെൻഷിയേഷൻ എന്നത് ഒരു സാഹചര്യമാണ് ഒരു സെൽ അതിന്റെ ഡിഫറെൻഷിയേഷൻ കഴിവ് മറക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോഴാണ് അങ്ങനെ പറയുന്നത് ഉദാഹരണമായി ഇത് ഒരു ന്യൂറോണായി മാറുന്നു ഇപ്പോൾ ഇതിൻറെ പ്രവർത്തന സാധ്യതകൾ നഷ്ടപ്പെടുന്നു ഇതിന് ന്യൂറോൺ ട്രാൻസ്മിറ്ററുകളോ ആക്ഷൻ പൊട്ടൻഷിയലോ ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു അതായതു ആ സെൽ ഡി ഡിഫറെൻഷിയേറ്റഡ് ആയി മാറി അവയ്ക്കിനി പഴയ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ ഇതിൽ ഉറപ്പു പറയുന്നില്ല കാരണം അവയെ വീണ്ടും പഴയ പോലെ ആക്കുന്ന സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചേക്കാം അതിനാൽ ഒരു ഡി ഡിഫറെന്ഷിയേറ്റഡ് സെൽ അതിന്റെ ഡിഫറെന്ഷിയേറ്റഡ് അവസ്ഥ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇവിടെ മറ്റൊരു വാക്ക് ഉണ്ട് ഡി അഡാപ്റ്റേഷൻ ഉദാഹരണത്തിന് ഒരു സെൽ ഒരു പ്രത്യേക ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നതിന് അനുയോജ്യമാണ് ഇപ്പോൾ ഈ പ്രത്യേക ഹോർമോൺ ഉൽപാദനം ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് നടക്കുന്നത് നിങ്ങൾ ഈ സെല്ലിനെ മറ്റൊരു ചുറ്റുപാടിൽ സൂക്ഷിക്കുന്നു അത് വ്യത്യസ്തമായി പെരുമാറും മുമ്പത്തെ ക്ലാസ് ഉദാഹരണം എടുക്കുക ഞാൻ ഈ ചുവപ്പു വീടെടുക്കുകയാണ് ഓരോ വീടും ഈ ചുറ്റുപാടിലെ ഒരു സെല്ലായി ഞാൻ കണക്കാക്കുന്നു അതിനാൽ ഇവിടെ അവ XYZ കോമ്പൌണ്ട് ഉണ്ടാക്കുന്നു ഇത് A സംയുക്തം ഉത്പാദിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഇത് നീക്കം ചെയ്ത് ഒറ്റപ്പെടലിൽ വളർത്തുകയാണെങ്കിൽ അതിന് സംയുക്തങ്ങൾ ഉൽപാദിപ്പിക്കാൻ കഴിഞ്ഞേക്കില്ല കാരണം ഈ ചുവപ്പ് നിറത്തിലുള്ള വീടിന് സംയുക്തം ഉൽപാദിപ്പിക്കുന്നതിന് ഈ പിങ്ക് നിറത്തിൽ നിന്ന് ഈ പച്ച നിറങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ നീലയിൽ നിന്ന് സ്വാധീനം ആവശ്യമായി വന്നേക്കാം ഈ സ്വാധീനങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തുസംഭവിക്കും ഈ സെൽ ആ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നില്ല അവ ഡി അഡാപ്റ്റഡ് ആയി മാറും ഈ പ്രക്രിയയെ ഡി അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നു ഈ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് ഒരു ഡി ഡിഫറെന്ഷിയേറ്റഡ് സെലാണോ ഇവയെയെല്ലാം പറ്റി പിന്നീട് കൂടുതൽ കൈകാര്യം ചെയ്യുമ്പോൾ പറയാം അല്ലെങ്കിൽ അത് ഡി അഡാപ്റ്റഡ് ആണോ അത് ശരിയാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതുപോലെ സെൽ ലൈനുകൾ ഉപയോഗിക്കുന്നവർ സെൽ ലൈനുകൾ തുടർച്ചയായി വിഭജിക്കുന്ന സെല്ലുകളാണ് ആളുകൾ അത്തരം സെല്ലുകളുടെ കോളനികളെ ഒറ്റയ്ക്ക് ദ്രാവക നൈട്രജനിൽ സൂക്ഷിക്കുകയും അവയെ പുറത്തെടുക്കുകയും വീണ്ടും സബ് കൾച്ചർ ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ ഈ വാക്കുകളിലേക്ക് വീണ്ടും വരും എന്താണ് സെൽ കൾച്ചർ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല തൽക്കാലം അവയുടെ അടിസ്ഥാനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ സെല്ലിന്റെ ഒരു കൂട്ടമാണ് എനിക്ക് ആ സെല്ലുകളെ വളർത്താൻ കഴിയും എനിക്ക് അവയെ വിഭജിക്കാം എനിക്ക് ഇതുപോലെ അതിൽ നിന്നും ഒരു ഭാഗം എടുക്കാം എന്നിട്ടവ സംഭരിക്കാം കൂടാതെ ഞാൻ എന്റെ പരീക്ഷണങ്ങൾക്കായി സെല്ലുകളെ എടുക്കുകയും തിരിച്ചവയെ സംഭരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വിഭജിക്കുമ്പോഴെല്ലാം ഞാൻ അതിൽ നിന്നും കുറച്ചെടുത്തു ദ്രാവക നൈട്രജനിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഞാൻ അത് വീണ്ടും ഉപയോഗിക്കുന്നു കൂടാതെ എനിക്ക് അത് ധാരാളം ചെറിയ ഭാഗങ്ങളാക്കാം കൂടാതെ ഞാൻ അത് വീണ്ടും വളർത്തുകയും അതിൽ നിന്നും വീണ്ടും എടുക്കുകയും ചെയ്യുന്നു ഈ തുടർച്ചയായി നടക്കുന്ന പ്രക്രിയകളെ സബ് കൾച്ചർ എന്ന് വിളിക്കുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് സാധാരണയായി ഉപയോഗിക്കുന്ന ഹീലാ സെല്ലുകളെ പറ്റി പറഞ്ഞിരുന്നു ഹെൻറിയേറ്റയുടെ ഈ സെൽ ലൈനിലേക്ക് നമ്മുക്ക് വരാം പക്ഷേ ഇവിടെ ഞാൻ എടുത്തുപറയാൻ ആഗ്രഹിക്കുന്നത് ചില രസകരമായ മുന്കരുതലുകളാണ് സെല്ലുകൾ സെൽ സൈക്കിളിലൂടെ കടന്നു പോകുമ്പോൾ അവയുടെ ടെലോമിയർ നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ടെലോമിയർ ആക്ടിവിറ്റി മാറുന്നു ഇന്നും ലോകത്ത് പല ഭാഗങ്ങളിലും 1950 ൽ വികസിപ്പിച്ച ഹീലാ സെല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട് അവ എത്ര സൈക്കിളുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് ഇപ്പോഴും ഉറപ്പില്ല എന്നാൽ അവയെപ്പറ്റി പല പഠനങ്ങളും നടന്നിട്ടുണ്ട് അവർ ചിലത് വായിക്കാനായി ഞാൻ നിങ്ങള്ക്ക് നൽകാൻ ശ്രമിക്കാം പല ഭാഗങ്ങളിലും ഇത്തരം പഠനങ്ങൾ തുടരുന്നു ഒരു സിന്തറ്റിക് അഥവാ കൃത്രിമ അവസ്ഥയിൽ വളരുന്ന സെൽ ലൈനുകൾ വീണ്ടും വീണ്ടും നമുക്ക് ന്യായമായ ഫലങ്ങൾ നൽകുന്നു ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് ഈ ഡിവിഷൻ പ്രോസസ് ആണ് ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് ഇത് എന്നെന്നേക്കുമായി വിഭജിക്കാൻ കഴിയും ഒരുപക്ഷേ അതിന് പരിധിയില്ല കൂടാതെ പലതവണ നമ്മളവയെ ആ പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾ സബ് കൾച്ചർ ചെയ്യുമ്പോൾ അതായതു സെല്ലുകളെ തലമുറ തലമുറ കൈമാറ്റം ചെയ്യുമ്പോൾ ഇത് എത്ര തവണയെങ്കിലും വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ട്രാക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റോക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ല ഇതിന് മുമ്പ് നിരവധി തവണ ഇത് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു ടാബ് സൂക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് കാരിയർ ടൈപ്പിംഗ് പ്രോസസ്സ്സാണ് അവിടെ നിങ്ങൾക്ക് ക്രോമസോമുകളെ വിശകലനം ചെയ്യാൻ കഴിയും നിങ്ങൾക്കറിയാവുന്ന സെല്ലുകളുടെ സെൽ ലൈനുകളാന്നെങ്കിൽ നിങ്ങൾക്കവ കാരൃർ ടൈപ്പ് ചെയ്യാൻ കഴിയണം ഒറിജിനൽ ഒരു 40 50 വർഷം പഴക്കം ഉള്ളതാണെങ്കിൽ അതിനോട് എത്ര സാമ്യം ഉണ്ടെന്നു നോക്കണം സാമ്യം ഇല്ലെങ്കിൽ അവ ഉപേക്ഷിക്കണം നാം എല്ലായ്പോഴും ഈ പ്രക്രിയയിലൂടെ കടന്നു പോകണം എണ്ടുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ നമ്മുക്ക് അവ്യക്തമായ ഫലങ്ങളാവും കിട്ടുക ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ അടിസ്ഥാനപരമായി ഇതൊരു കെമിക്കൽ പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കണം സെൽ സൈക്കിളിലൂടെ പോകുമ്പോൾ ഇതിനെ പരിശോധിക്കാൻ പല ചെക്ക് പോയിൻറ്കളും ഉണ്ട് സൈക്ലിൻ cdk കൈനേസ് പോലുള്ളവ ഇനി ഇതിൻറെ ജനിതക ഘടനയെ ബാധിക്കുന്നുണ്ടോ അവയെ ഒരു സെന്സറായി ഉപയോഗിക്കുകയും അവ തിരിച്ചറിയുന്ന സെൻസിങ് പ്രോട്ടീൻ ശരിയായി ഉണ്ടാക്കുന്നിടത്തോളം എല്ലാം ശരിയായി പോകുന്നുണ്ടെന്നർത്ഥം പക്ഷേ നിങ്ങൾ ഇത് ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇത് പ്രധാനമാണ് ഒരു സെൽ കൾച്ചറിസ്റ്റ് എന്ന നിലയിൽ ഈ അടിസ്ഥാന ചോദ്യങ്ങൾ ചോദിക്കാതെ പോകരുത്

എന്ന പദവുമുണ്ട് സെൽ ലൈൻ കൾച്ചറിനെ പറ്റി പറയുമ്പോൾ പറയാം എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെക്കുറിച്ച് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ചുറ്റുപാടുകളെ കുറിച്ച് ഇൻ വിവോ സിസ്റ്റത്തിന്റെ ചലനാത്മക സ്വഭാവത്തെക്കുറിച്ചും ആധുനിക സാങ്കേതികവിദ്യ മൈക്രോ ഫ്ലൂയിഡിക് സിസ്റ്റം ഉപയോഗിച്ച് വിവോ സിസ്റ്റത്തെ എങ്ങനെ അനുകരിക്കാമെന്നും നമ്മൾ സംസാരിച്ചു 2017 വരെ ആ പ്രദേശത്തെ ഏറ്റവും പുതിയ പഠനങ്ങളെക്കുറിച്ചും നമ്മൾ പിന്നീട് സംസാരിക്കും ഇപ്പോൾ നമ്മൾ സെൽ സൈക്കിളിനെക്കുറിച്ച് സംസാരിച്ചു സെൽ ലൈനിലും പ്രാഥമിക കൾച്ചറിലും നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയും പറഞ്ഞു ഇത് മറ്റൊരു പുതിയ പദമാണ് നമ്മൾ ഇതിലേക്ക് പിന്നീട് തിരികെ വരും സെൽ കൾച്ചർ ടെക്നോളജിയുടെ മറ്റ് വശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അടുത്ത ക്ലാസ്സിൽ കൾച്ചർ സെല്ലിന്റെ ജീവശാസ്ത്രത്തെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കും